ഈ പ്രഭാഷണത്തിൽ നമ്മൾ സ്മിത്ത് ചാർട്ട് ഉപയോഗിച്ച് ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പോകുന്നു അതുവഴി പ്രഭാഷണങ്ങളിൽ പഠിപ്പിക്കുന്നതെന്തും നിങ്ങൾ മനസ്സിലാക്കും കൂടാതെ ഇത് പരിശീലിക്കണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു കാരണം ഈ കോഴ്സിന്റെ അസൈൻമെന്റുകൾ ചെയ്യുന്നതും പരീക്ഷകൾ ചെയ്യുന്നതും സ്മിത്ത് ചാർട്ട് കണക്കുകൂട്ടലുകൾ ചെയുന്നതിനുള്ള നിങ്ങളുടെ കഴിവിനെ പരിശോധിക്കും കൂടാതെ ഒരു പ്രൊഫഷണൽ ഉപദേശം ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് ഈ പ്രൊഫഷനലിൽ മികവ് പുലർത്തുന്ന ഒരാൾ ആവണമെങ്കിൽ നിങ്ങൾ സ്മിത്ത് ചാർട്ട് നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് കാൽക്കുലേറ്റർ സഹായിക്കുന്നതുപോലെ ശരിയായിരിക്കണം ഏതൊരു ശാസ്ത്രജ്ഞനും സയന്റിഫിക് കാൽക്കുലേറ്ററുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് ലളിതമായ കാര്യങ്ങൾക്കായി ധാരാളം സമയം പാഴാക്കേണ്ടതായി വരും നമ്മൾ ഒരു സയന്റിഫിക് കണക്കുകൂട്ടൽ നടത്തുമ്പോൾ കാൽക്കുലേറ്ററുകൾ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതല്ല നമ്മളുടെ ലക്ഷ്യം മറിച്ച് നമ്മുടെ അധ്വാനം മറ്റ് തത്വശാസ്ത്രപരമായ കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു അതുപോലെ ട്രാൻസ്മിഷൻ ലൈനിൽ നിങ്ങൾ ആ കണക്കുകൂട്ടലുകൾ സ്വമേധയാ ചെയ്യുകയാണെങ്കിൽ ധാരാളം സമയം പാഴായിപ്പോകും സ്മിത്ത് ചാർട്ടിന്റെ ഈ ടൂൾ ഉപയോഗിച്ച് അത് വളരെ ലളിതമായി ചെയ്യാൻ കഴിയും അതിനാൽ ദയവായി ആ കാര്യങ്ങൾ പരിശീലിക്കുക അതിനാൽ ആ പ്ലോട്ടും ഇംപെഡൻസ് z̄25 j 40 സ്മിത്ത് ചാർട്ടിൽ കാണിക്കുന്നതെന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം ക്യാരക്ടർസ്റ്റിക് ഇംപെഡൻസ് 50 ഓം ആണെന്ന് കരുതുക ഈ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നോർമലൈസ് ചെയ്യുക എന്നതാണ് കാരണം ഈ ഇംപെഡൻസ് സ്മിത്ത് ചാർട്ട് നോർമലൈസ് ചെയ്ത ഇംപെഡൻസ് ആയതിനാൽ ഇത് ക്യാരക്ടർസ്റ്റിക് ഇംപെഡൻസിൽ നിന്ന് സ്വതന്ത്രമാണ് അതുകൊണ്ടാണ് ഇതിന് വിവിധ മൂല്യങ്ങൾ ഉള്ളത് അത് നോർമലൈസ് ചെയ്യുന്ന രീതിയിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നു അതിനാൽ ആദ്യം നിങ്ങൾ ക്യാരക്ടർസ്റ്റിക് ഇംപെഡൻസുമായി ബന്ധപ്പെട്ട് ഇംപെഡൻസ് നോർമലൈസ് ചെയ്യുക അതിന് 50 ഓം നൽകിയിരിക്കുന്നു അതിനാൽ Z R jx̄ 0 5 j 0 8 അപ്പോൾ നിങ്ങൾ R എന്നത് 0 5 സർക്കിളിന് തുല്യമാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് അപ്ലോഡ് ചെയ്ത സ്മിത്ത് ചാർട്ട് നിങ്ങൾക്ക് എടുക്കാം കാരണം ഇന്റർനെറ്റിൽ ബ്ലാക്ക് മാജിക് ഡിസൈൻ എന്ന് വിളിക്കുന്ന സോഫ്റ്റ്വെയർ സൌജന്യമായി ലഭ്യമാണ് അവർ ഇട്ടത് ആളുകൾക്ക് ഡൌൺലോഡ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു നമ്മൾ ഇതിന്റെ സാമ്പിൾ കോപ്പികൾsample കോപ്പി സൂക്ഷിച്ചിട്ടുണ്ട് ഈ കോഴ്സിന്റെ അവസാനഭാഗത്തിൽ അത് ചെർത്തിട്ടുണ്ടുണ്ട് അതിനാൽ റിയൽ ആക്സിസിൽ കോൺസ്റ്റന്റായ റെസിസ്റ്റൻസിന്റെ മൂല്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നൽകിയിരിക്കുന്നത് റെസിസ്റ്റൻസ് സർക്കിൾ മൂല്യങ്ങൾ ആണ് അതിനാൽ നിങ്ങൾക്ക് അത് അവിടെ കണ്ടെത്താൻ സാധിക്കും നമ്മൾ കാണിച്ച പോലെ ആദ്യം നിങ്ങൾ സ്മിത്ത് ചാർട്ടിന്റെ മധ്യഭാഗം കണ്ടെത്തുക തുടർന്ന് നിങ്ങൾ അത് R ആയതിനാൽ 0 5 ഇത് ഇടതുവശത്തായിരിക്കുമെന്ന് നിങ്ങൾ കാണും നമ്മൾ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നതുപോലെ 0 5 എന്നത് നിങ്ങൾ കണ്ടെത്തുന്ന സർക്കിളാണ് അതായത് വലത് 10 പോയിന്റിലൂടെയും 0 5 ലൂടെയും കടന്നുപോകുന്ന സർക്കിൾ അപ്പോൾ നിങ്ങൾ കോൺസ്റ്റന്റായ റിയാക്റ്റൻസ് 0 8 സർക്കിൾ എന്താണെന്ന് കണ്ടെത്തുക അതിനാൽx̄ നിങ്ങൾ r ൽ കണ്ടെത്തുന്ന 0 8 ന് തുല്യമാണ് ആ R കളിൽ മൂല്യങ്ങൾ നൽകിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നു ഇവ ഏറ്റവും പുറം ചുറ്റളവിലുള്ള വസ്തുവിന്റെ ഇന്നർ സൈഡിൽ നൽകിയിരിക്കുന്നു അതിനാൽ ഞാൻ ഇവിടെ 0 8 എന്തെങ്കിലും കണ്ടെത്തുന്നു അതിനാൽ ഇവിടെ എവിടെയെങ്കിലും ഈ ഇന്റർസെക്ഷൻ പോയിന്റുകൾ നമ്മൾ ആഗ്രഹിക്കുന്നവയാണ് ഇത് ഉപയോഗിച്ച് ഏത് ഇംപെഡൻസ് വേണമെങ്കിലും കണ്ടെത്താനാകും സ്മിത്ത് ചാർട്ടിൽ എനിക്ക് അത് ലൊക്കേറ്റ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇതാണ് അതിനുള്ള നടപടിക്രമങ്ങൾ അടുത്തത് ഇംപെഡൻസിന്റെ ഉള്ളിൽ നമുക്ക് ഇത് ചെയ്യാം എനിക്ക് Y 0 018 ℧ന്റെ അഡ്മിറ്റൻസ് ഉണ്ടെന്ന് കരുതുക അത് പ്ലോട്ട് ചെയുക ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നുകിൽ നമുക്ക് അത് ഒരു ഇംപെഡൻസ് സ്മിത്ത് ചാർട്ടിൽ പ്ലോട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അത് അഡ്മിറ്റൻസ് സ്മിത്ത് ചാർട്ടിൽ പ്ലോട്ട് ചെയ്യാം ഇനി നമുക്ക് രണ്ട് കാര്യങ്ങളും ചെയ്യാം ആദ്യം നമുക്ക് ഇംപെഡൻസ് സ്മിത്ത് ചാർട്ടിൽ ചെയ്യാൻ നോകാം തുടർന്ന് അതേ കാര്യം അഡ്മിറ്റൻസ് സ്മിത്ത് ചാർട്ടിൽ പ്ലോട്ട് ചെയ്യാം വീണ്ടും ആദ്യത്തെ ഘട്ടം നോർമലൈസേഷൻ ആണ് അതിനാൽ ക്യാരക്ടറിസ്റ്റിക്സ് അഡ്മിറ്റൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോർമലൈസേഷൻ നടത്തുന്നു ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് 50 ഓം ആയി നൽകിയിരിക്കുന്നു അതിനാൽ ക്യാരക്ടറിസ്റ്റിക് അഡ്മിറ്റൻസ് Y₀1Z₀ ആണ് അതിനാൽ നിങ്ങൾ അഡ്മിറ്റൻസിനെ ക്യാരക്ടറിസ്റ്റിക് അഡ്മിറ്റൻസ് കൊണ്ട് വിഭജിക്കുന്നു അപ്പോൾ നോർമലൈസ് ചെയ്ത ക്യാരക്ടറിസ്റ്റിക് അഡ്മിറ്റൻസ് ലഭിക്കുന്നു Y G j B0 9 അതിനാൽ ഇംപെഡൻസ് സ്മിത്ത് ചാർട്ടിൽ നിങ്ങൾക്ക് ഒരു അഡ്മിറ്റൻസ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മെന്റൽ പ്ലെയിനിൽ കോൺസ്റ്റന്റായ R സർക്കിൾ എന്നത് കോൺസ്റ്റന്റായ J സർക്കിളും കോൺസ്റ്റന്റായ x̄ സർക്കിൾ എന്നത് കോൺസ്റ്റന്റായ B സർക്കിളും ആണെന്ന് ഇപ്പോൾ നിങ്ങൾ കരുതുന്നു അതിനാൽ ഈ രണ്ട് കാര്യങ്ങളും തിരിച്ചറിയുക ഇപ്പോൾ G എന്നത് 0 55 ന് തുല്യമാണ് മുമ്പത്തെ സന്ദർഭത്തിൽ നിങ്ങൾ ഇവ കണ്ടെത്തിയതിനാൽ ഇപ്പോൾ 0 55 സർക്കിൾ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഈ ചാർട്ടിലെ ഈ സർക്കിൾ 0 55 സർക്കിളാണ് തുടർന്ന് മൈനസ് j 0 9 ആണ് ഇത് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് എന്നാൽ ഇത് j 0 9 ആയിരിക്കും അതിനാൽ സെക്ഷൻ പോയിന്റിൽ ഉള്ളത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഏ അറിയാമെങ്കിൽ മറ്റൊരു കാര്യം കൂടി ചെയ്യാമായിരുന്നു എന്ന് കാണാം അതായത് നിങ്ങൾ ഏ കണ്ടെത്തിയിരിക്കുന്നു മൂന്നാമത്തെ പ്രശ്നം ഇതായിരിക്കും ഈ അതേ അഡ്മിറ്റൻസ് മൂല്യം നമ്മൾ കണക്കാക്കുന്നു എന്നാൽ അത് അഡ്മിറ്റൻസ് സ്മിത്ത് ചാർട്ടിൽ ആണ് അഡ്മിറ്റൻസ് സ്മിത്ത് ചാർട്ടിൽ ലേബലുകൾ വ്യത്യസ്തമാണ് കൂടാതെ അഡ്മിറ്റൻസ് സ്മിത്ത് ചാർട്ടിൽ ഞാൻ കാണിച്ചത് പോലെ എല്ലാ സർക്കിളുകളും മൈനസ് വൺ സീറോ പോയിന്റിലൂടെയാണ് കടന്നുപോകുന്നത് കൂടാതെ ഇവിടെ കാണാൻ കഴിയുന്നതുപോലെ അവയുടെ മൂല്യങ്ങൾ വ്യത്യസ്തമാണ് അതിനാൽ ഇവിടെ അതേ പോയിന്റ് 0 55 ആണ് മുമ്പത്തെ കേസിൽ അല്ലെങ്കിൽ അഡ്മിറ്റൻസ് കേസ് ഇവിടെയുണ്ട് അതിനാൽ പോയിന്റ് ഇവിടെ എവിടെയോ വരുന്നു പക്ഷേ ഇവിടെ പോയിന്റ് ഇവിടെ എവിടെയോ ആണെന്ന് നിങ്ങൾ കാണുന്നു ഇപ്പോൾ ആർക്കെങ്കിലും പറയാമോ നമ്മൾ തെറ്റ് ചെയ്യുകയാണോ അതോ ഇത് ശരിയാണോ എന്ന് സ്മിത്ത് ചാർട്ടിൽ ഏതെങ്കിലും ഇംപെഡൻസ് പോയിന്റ് 180 ഡിഗ്രി പ്രതിഫലിപ്പിച്ചാൽ നമുക്ക് ഒരു അഡ്മിറ്റൻസ് പോയിന്റ് ലഭിക്കുമെന്ന് നമ്മൾ ഇതിനകം കണ്ടുകഴിഞ്ഞു അതിനാൽ ഇത് സൂചിപ്പിക്കുന്നത് ഇംപെഡൻസിൽ നിന്ന് ലഭിച്ച ഈ പോയിന്റിൽ നമ്മൾ റിഫ്ലക്ഷൻ നടത്തിയാൽ അടിസ്ഥാനപരമായി നമുക്ക് അഡ്മിറ്റൻസ് ലഭിക്കും ഇപ്പോൾ പ്രശ്നം ഇതിൽ ഏതാണ് എളുപ്പമുള്ളത് എന്നതാണ് വ്യക്തമായും അഡ്മിറ്റൻസ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ അത് അഡ്മിറ്റൻസ് ഗ്രാഫിലേക്ക് അതായത് അഡ്മിറ്റൻസ് സ്മിത്ത് ചാർട്ടിലേക്ക് പ്ലോട്ട് ചെയ്യണം നിങ്ങൾക്ക് ഇംപെഡൻസ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ അത് ഇംപെഡൻസ് സ്മിത്ത് ചാർട്ടിൽ പ്ലോട്ട് ചെയ്യണം എന്നാൽ ഞാൻ പറയുന്നത് പോലെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇംപെഡൻസ് അഡ്മിറ്റൻസിലേക്ക് പരിവർത്തനം ചെയ്യേണ്ടതുണ്ട് കാരണം ചില സർക്യൂട്ടിന്റെ ഭാഗങ്ങൾ സീരീസ് ആണ് ചില ഭാഗം പാരലൽ ആണ് അതിനാൽ സീരീസ് കാര്യങ്ങൾ ചെയ്ത ശേഷം നിങ്ങൾ അതിലേക്ക് പരിവർത്തനം ചെയ്യേണ്ടതുണ്ട് ആ സമയത്താണ് ഈ പ്രശ്നം വരുന്നത് അതിനാൽ ഒരു ഇംപെഡൻസ് കാര്യത്തിലാണെങ്കിൽ അത് അഡ്മിറ്റൻസായി പരിവർത്തനം ചെയ്യാൻ നമുക്ക് 180 ഡിഗ്രി ഷിഫ്റ്റ് എടുക്കേണ്ടതുണ്ട് എന്നാൽ എല്ലാ കണക്കുകൂട്ടലുകളും അഡ്മിറ്റൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇംപെഡൻസ് സ്മിത്ത് ചാർട്ട് അഡ്മിറ്റൻസ് സ്മിത്ത് ചാർട്ടായി കണക്കാക്കാവുന്നതാണ് ഒരു പ്രശ്നവുമില്ല ഇപ്പോൾ നമ്മൾ ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് ആ പരിവർത്തനത്തിന്റെ ചോദ്യമാണ് ആദ്യ പ്രശ്നത്തിൽ ചെയ്ത അതേ ഇംപെഡൻസ് 25 j 40 Ω നിങ്ങൾ അതിനെ ഇംപെഡൻസ് സ്മിത്ത് ചാർട്ടിലെ അഡ്മിറ്റൻസിലേക്ക് പരിവർത്തനം ചെയ്യും അതിനാൽ നിങ്ങൾ നോർമലൈസ്ഡ് അഡ്മിറ്റൻസ് പ്ലോട്ട് മുമ്പത്തെ പോലെ ചെയ്യുക അതിനാൽ നമ്മൾ അത് ഈ ചിത്രത്തിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ടെന്നും ഇതാണ് നമ്മൾ പ്ലോട്ട് ചെയ്ത പോയിന്റെന്നും നിങ്ങൾ കാണുന്നു ഇപ്പോൾ അഡ്മിറ്റൻസിലേക്ക് പരിവർത്തനം ചെയുന്നതിനായി എന്താണ് ചെയേണ്ടതെന്നാൽ ഈ പോയിന്റിൽ നിന്ന് ചാർട്ടിന്റെ മധ്യഭാഗത്തേക്ക് നമ്മൾ കണക്റ്റുചെയ്യേണ്ടതുണ്ട് കൂടാതെ ഈ റേഡിയസും സെന്ററും ഉപയോഗിച്ച് ഒരു സർക്കിൾ വരയ്ക്കേണ്ടതുണ്ട് അതിനാൽ അടിസ്ഥാനപരമായി നമ്മൾ എന്താണ് വരയ്ക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം അടിസ്ഥാനപരമായി നമ്മൾ ഒരു കോൺസ്റ്റന്റായ VSWR സർക്കിൾ വരയ്ക്കുകയാണ് അതിനാൽ ട്രാൻസ്മിഷൻ ലൈനിൽ ലൈൻ ഇംപെഡൻസുകളിൽ ഒന്ന് ഇവയാണ് ഇപ്പോൾ നിങ്ങൾ ഈ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ അടിസ്ഥാനപരമായി കോൺസ്റ്റന്റായ VSWR സർക്കിളിലാണ് നീങ്ങുന്നത് അതിനാൽ ഇപ്പോൾ ഈ പോയിന്റിൽ നിന്ന് നിങ്ങൾ മറ്റൊരു ഡയമെട്രിക് അറ്റത്തേക്ക് നീങ്ങിയാൽ നിങ്ങൾക്ക് അഡ്മിറ്റൻസ് ലഭിക്കുന്നു അതിനാൽ അവിടെയാണ് 00 ആരംഭവും d റേഡിയസും ഉള്ള സർക്കിൾ വരയ്ക്കുക അടിസ്ഥാനപരമായി ഒരു കോൺസ്റ്റന്റായ VSWR സർക്കിൾ വരയ്ക്കുക തുടർന്ന് അഡ്മിറ്റൻസ് ഒരു ഇൻഫ്ളക്ഷന് വിപരീതമായി 180 ഡിഗ്രി ആയിരിക്കും അതിനാൽ ഇവിടെ നമ്മൾ കാണിക്കുന്നത് റിഫ്ലക്ഷൻ എന്നാൽ അടിസ്ഥാനപരമായി നിങ്ങൾ ഡയമീറ്റർന്റെ മറ്റേ അറ്റത്താണ് എന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് ശരിയായ മൂല്യം ലഭിക്കുന്നുണ്ടെന്ന് നമ്മൾക്ക് വായിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ ഇംപെഡൻസ് സ്മിത്ത് ചാർട്ടിൽ ആണെങ്കിലും അല്ലെങ്കിൽ സ്മിത്ത് ചാർട്ട്ൽ ആണെങ്കിലും ഈ നടപടിക്രമങ്ങൾ ഉപയോഗിച്ച് എന്തും കൃത്യമായി പ്ലോട്ട് ചെയ്യാൻ കഴിയുമെന്ന് ഇത് കാണിക്കുന്നു അതിനാൽ ഈ നാലും അതിനുള്ള ഉദാഹരണങ്ങളാണ് നിങ്ങൾക്ക് ലഭ്യമായ ഏത് സ്മിത്ത് ചാർട്ടിലും ഇംപെഡൻസ് അല്ലെങ്കിൽ അഡ്മിറ്റൻസ് എങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു ലബോറട്ടറി അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷണത്തിലൂടെ ചെയ്യാം വിഎസ്ഡബ്ല്യുആർ മീറ്റർ അളക്കുന്നത് എന്ന് നമ്മൾ പറയുന്നതുപോലെ വിഎസ്ഡബ്ല്യുആർ 1 5 ആയിരിക്കണം സ്മിത്ത് ചാർട്ടിൽ കോൺസ്റ്റന്റായ VSWR സർക്കിൾ പ്ലോട്ട് ചെയ്യുക അതിനാൽ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തതിൽ നിന്ന് നമുക്ക് ആദ്യ ഘട്ടം അറിയാം അത് R എന്ന 1 5 സർക്കിളിന് തുല്യമായ പോയിന്റ് തിരിച്ചറിയുക എന്നതാണ് ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത് സ്മിത്ത് ചാർട്ട് VSWR നായി ഗ്രാജുവേറ്റ് ചെയ്യുന്നില്ല പകരം അതിന് R ന്റെ ഗ്രാജുവേഷൻ ഉണ്ടെന്ന് നമുക്കറിയാം അതിനാൽ നമ്മൾ VSWR അല്ല മറിച് ർ ഓർത്തിരിക്കേണ്ടതുണ്ട് R എന്നത് 1 5 സർക്കിളിന് തുല്യമാണ് R അതേ സർക്കിളിന് തുല്യമാണ് അത് റിയൽ ആക്സിസ് എവിടെയാണ് മുറിക്കുന്നതെന്ന് കണ്ടെത്തുക അതാണ് VSWR സർക്കിളിന്റെ ഒരു പോയിന്റ് മറ്റൊന്ന് ഒറിജിൻ ആണ് സെന്റർ അതിനാൽ നിങ്ങൾക്ക് പെരിഫറി അറിയാം കേന്ദ്രം അറിയാം അതിനാൽ സ്റ്റെപ്പ് രണ്ട് എന്നത് അളന്ന് ദൂരം കണ്ടെത്തുകയാണ് കോൺസ്റ്റന്റായ VSWR സർക്കിൾ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതിനാൽ d റേഡിയസ് ഉള്ള സെന്റർ 00 ആയ ഒരു സർക്കിൾ വരയ്ക്കുക അതിനാൽ VSWR മീറ്റർ ഉപയോഗിച്ച് എന്തെങ്കിലും അളക്കുകയാണെങ്കിൽ അത് എങ്ങനെ ഇവിടെ പ്ലോട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം ഇനി നമുക്ക് ഈ പ്രശ്നം ചെയ്യാം ഇത് ലൈൻ ഇംപെഡൻസ് കണക്കുകൂട്ടലിനെക്കുറിച്ചാണ് ഞാൻ ട്രാൻസ്മിഷൻ ലൈനിലൂടെ നീങ്ങുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ ഈ കാര്യം ചെയാം എന്ന് ഈ സ്ലൈഡിൽ നമുക്ക് കാണാം നിങ്ങക്ക് സ്മിത്ത് ചാർട്ട് സങ്കീർണ്ണമാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ പ്രശ്നം നിങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക വിശകലനാത്മകമായി അത് സ്മിത്ത് ചാർട്ട് അനുസരിച്ച് ചെയ്യരുതെന്ന് ഞാൻ ഇപ്പോൾ നിങ്ങളെ ഉപദേശിക്കും ഇത് എത്രമാത്രം പ്രശ്നമുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഒരു സ്മിത്ത് ചാർട്ട് വെച്ച് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് നിങ്ങൾ സ്മിത്ത് ചാർട്ട് വ്യക്തമായി മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് RF എഞ്ചിനീയർമാർക്ക് സ്മിത്ത് ചാർട്ട് ഉപയോഗിക്കുന്നതിൽ വളരെ താല്പര്യമുള്ളത് അതിനാൽ ഈ ഇന്റർഫേസിൽ എന്താണ് എന്ന് കണ്ടെത്തുന്നത്താണ് ആദ്യ ഘട്ടം 1 ഗിഗാ ഹെർട്സിൽ ലൈൻ ഇംപെഡൻസ് 100 j 40 Ω ആണെന്ന് പറയാം അത് ഫ്രീക്വൻസി ആണ് ഇപ്പോൾ 4 പി പി പോയിന്റിൽ നിന്ന് 5 സെന്റീമീറ്റർ അകലെ ലോഡിലേക്ക് നീങ്ങുന്നQ Q പോയിന്റിന്റെ ഇംപെഡൻസ് കണ്ടെത്തുക ആദ്യത്തെ കാര്യം ഇതാണ് 100 j 40 Ω നിങ്ങൾ ഇട്ട ശേഷം ആ ദൂരം ലോഡിലേക്ക് നീങ്ങുക തുടർന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും അതിനാൽ അവൻ ആദ്യം ചെയ്ത കാര്യം നമ്മളും ചെയേണ്ടതായുണ്ട് അത് നോർമലൈസ് ചെയുക എന്നതാണ് അത് എല്ലായ്പ്പോഴും ചെയ്യേണ്ടതാണ് അതിനാൽ Z R jx̄ 100 j 40 Ω50 2 j 0 8 നിങ്ങൾക്ക് z̄ കണ്ടെത്താം എന്നർത്ഥം R ന്റെ ഇന്റർസെക്ഷൻ 2 സർക്കിളിന് തുല്യമാണെന്ന് കണ്ടെത്തുക X എന്നത് 0 8 ആർക്കിന് തുല്യമാണ് അതിനാൽ ഇവിടെ ഇതാണ് z̄ പോയിന്റ് ആയി നിങ്ങൾ കാണുന്നത് ഒരിക്കൽ നിങ്ങൾക്ക് ഒരു ഇംപെഡൻസ് ലഭിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ആ ഇംപെഡൻസ് ഏതെങ്കിലും ട്രാൻസ്മിഷൻ ലൈനിൽ ആണെങ്കിൽ അത് ലോഡ് ഇംപെഡൻസ് ആണെങ്കിലും ലൈൻ ഇംപെഡൻസ് ആണെങ്കിലും ട്രാൻസ്മിഷൻ ലൈനിൽ നിങ്ങൾക്ക് കോൺസ്റ്റന്റായ VSWR സർക്കിൾ വരയ്ക്കാൻ കഴിയുമെന്ന് കണ്ടെത്തുക അതിനാൽ നിങ്ങൾ കോൺസ്റ്റന്റായ VSWR സർക്കിൾ വരയ്ക്കുന്നു അതായത് ഇതാണ് സെന്റർ ഇതാണ് പെരിഫറൽ പോയിന്റ് നിങ്ങൾ സർക്കിൾ പൂർത്തിയാക്കുന്നു ഇപ്പോൾ കോൺസ്റ്റന്റ് അർത്ഥമാക്കുന്നത് ഞാൻ ഈ കോൺസ്റ്റന്റായ VSWR ലൈനിലാണ് നീങ്ങുന്നത് എന്നാണ് അതിനാൽ സ്റ്റെപ്പ് രണ്ട് സ്മിത്ത് ചാർട്ട് ചലനത്തിന്റെ അടയാളപ്പെടുത്തലുകൾ ലാംഡയുടെ അടിസ്ഥാനത്തിൽ ആയതിനാൽ പ്രശ്നത്തിൽ 4 5 സെന്റീമീറ്റർ എന്ന് പറഞ്ഞതായി നിങ്ങൾ കണ്ടെത്തും എന്നാൽ എത്ര ലാംഡയാണ് നിങ്ങൾ പരിവർത്തനം ചെയ്യേണ്ടത് നിങ്ങളുടെ 1 ഗിഗാ ഹെർട്സ് ഫ്രീക്വൻസിക്ക് ലാംഡ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ അത് 30 സെന്റീമീറ്ററാണ് ലളിതമായ നമ്മുക്ക് ഇങ്ങനെ കണക്കുകൂട്ടാം 3 ഇൻറ്റു സ്പീഡ് അപ്പ് ലൈറ്റ് അതായത് 3 ഇൻറ്റു 10 പവർ 8 മീറ്റർ പെർ സെക്കൻഡ്meter പെർ second സ്പീഡ് അപ്പ് ലൈറ്റ് നെ f കൊണ്ട് ഹരിക്കുന്നതാണ് അത് 30 സെന്റീമീറ്റർന് തുല്യമാണ് ലാംഡ 30 സെന്റീമീറ്ററാണ് അതിനാൽ ലാംഡയുടെ അടിസ്ഥാനത്തിൽ 4 5 എന്നത് 0 15 λ ആണ് അതിനർത്ഥം നിങ്ങൾ z̄ ഒരു പോയിന്റ് കണ്ടെത്തിയ മുൻ പോയിന്റിൽ നിന്ന് ഇപ്പോൾ ലോഡിലേക്ക് നീങ്ങേണ്ടതുണ്ട് ഈ ഡയഗ്രം കാണുക നിങ്ങൾ ഒരു 0 15 λ മൂല്യം ലോഡിലേക്ക് നീങ്ങണം അതിനാൽ നിങ്ങൾ ഇവിടെ നിന്ന് ലോഡിലേക്ക് നോക്കുമ്പോൾ ഒരു സ്മിത്ത് ചാർട്ടിലെ ഏത് വശമാണ് ലോഡിലേക്കുള്ളത് എന്നതിനർത്ഥം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആണ് എന്നാണ് അതിനാൽ നിങ്ങൾ ഈ കോൺസ്റ്റന്റായ VSWR സർക്കിളിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 0 15 ദൂരം നീങ്ങുന്നു നിങ്ങൾ 0 15 കൊണ്ട് ചലിക്കുന്ന ഒരു വസ്തുവിൽ നിന്ന് ഇത് കാണുക അത് നിങ്ങളെ ഈ പുതിയ പോയിന്റിലേക്ക് കൊണ്ടുപോകും തുടർന്ന് നിങ്ങൾ ഇത് ബന്ധിപ്പിക്കും കാരണം യഥാർത്ഥത്തിൽ ഞാൻ കോൺസ്റ്റന്റായ VSWR സർക്കിളിൽ നീങ്ങിക്കൊണ്ട് നിങ്ങൾ ചലിക്കുന്നത് ഞാൻ ഔട്ടർ ബൌണ്ടറിയിൽ നിന്ന് വായിക്കുന്നു അതിനാൽ കോൺസ്റ്റന്റായ VSWR സർക്കിളിൽ അടിസ്ഥാനപരമായി ഞാൻ ഈ z̄ പോയിന്റിൽ എത്തിയിരിക്കുന്നു ഈ പോയിന്റിലേക്കും ഈ മൂല്യത്തിലേക്കും വരൂ റെസിസ്റ്റൻസ് മൂല്യവും റിയാക്റ്റൻസ് മൂല്യങ്ങളും എന്താണെന്ന് ഞാൻ വായിച്ചാൽ എനിക്ക് കണ്ടെത്താനാകും തുടർന്ന് എന്റെ ജോലി അത് അസാധാരണമായി ചെയ്യുക എന്നതാണ് അതിനാൽ ഇതിലൂടെ നമുക്ക് ലൈൻ ഇംപെഡൻസ് കണ്ടെത്താം ഇത് ഗൃഹപാഠമായിരിക്കും അതിനാൽ നിങ്ങളുടെ അസൈൻമെന്റ് ഇതായിരിക്കും നിങ്ങളെ പഠിപ്പിച്ചത് വെച്ച് നിങ്ങൾക്ക് ആദ്യത്തെ പ്രശ്നം ചെയ്യാൻ കഴിയും ഈ R b എന്നിവയുടെ വിവിധ കോമ്പിനേഷനുകൾ നൽകിയതായി നിങ്ങൾ കാണുന്നു അതായത് ആക്സെപ്റ്റൻസ് റെസിസ്റ്റൻസ് റിയാക്റ്റൻസ് മുതലായവ ചിലത് സീരിസിലാണ് ചിലത് പാരലൽ ആണ് അതിനാൽ നിങ്ങൾ ഇൻപുട്ട് ഇംപെഡൻസ് കണ്ടെത്തും ഇൻപുട്ട് ഇംപെഡൻസ് കണ്ടെത്താൻ ആവശ്യപ്പെടുന്നതിനാൽ നിങ്ങൾ ലോഡ് വശത്ത് നിന്ന് ആരംഭിക്കുന്നു ഒരു ലോഡ് ഉണ്ട് അത് എന്തെങ്കിലുമായി സീരിസിൽ ആയിരിക്കും അതിനാൽ ഇംപെഡൻസ് പ്ലെയിനിൽ നിങ്ങൾ ആ രണ്ട് കാര്യങ്ങളും അവയുടെ ആകെത്തുകയും കണ്ടെത്തും ഇനി ഒരു പാരലൽ സർക്യൂട്ട് ഉണ്ട് നിങ്ങൾ സ്വയം അഡ്മിറ്റൻസിലേക്ക് പരിവർത്തനം ചെയ്യുകയും അഡ്മിറ്റൻസ് എന്താണെന്ന് കണ്ടെത്തുകയും ബന്ധിപ്പിക്കുകയും ചെയ്യുക ഈ അഡ്മിറ്റൻസ് വീണ്ടും ഇംപെഡൻസിലേക്ക് പരിവർത്തനം ചെയ്യുക തുടർന്ന് ആ ഇംപെഡൻസ് ചേർക്കുക നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഈ ഘട്ടത്തിൽ ഇവിടെ വന്ന് ഇൻപുട്ട് ഇംപെഡൻസ് എന്താണെന്ന് കണ്ടെത്താനാകും സ്മിത്ത് ചാർട്ട് ഇല്ലാതെ ഇത് തന്നെ ചെയ്യുന്നത് ഒരുപാട് കുഴപ്പങ്ങളും കണക്കുകൂട്ടലുകളും ഉണ്ടാക്കുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്നാൽ ഒരു സ്മിത്ത് ചാർട്ടിൽ ഗ്രാഫ് ഉപയോഗിച്ച് നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും അതുപോലെ രണ്ടാമത്തെ പ്രശ്നം നമ്മുടെ ലബോറട്ടറി പ്രശ്നം പോലെയാണ് ഒരു ലബോറട്ടറിയിൽ നമ്മൾ വിഎസ്ഡബ്ല്യുആർ കണ്ടെത്തി കൂടാതെ നൽകിയിരിക്കുന്ന നിശ്ചിത അളവിലുള്ള ഫ്രീക്വൻസി കൊണ്ട് മിനിമ ഷിഫ്റ്റ് ഉണ്ടെന്നും നമ്മൾ ശ്രദ്ധിച്ചു അതിനാൽ നിങ്ങൾ ഇംപെഡൻസും മൂന്നാമത്തെ പ്രശ്നവും കണ്ടെത്തും ചിത്രത്തിൽ നൽകിയിരിക്കുന്ന ട്രാൻസ്മിഷൻ ലൈനിന്റെ ഇൻപുട്ട് ഇംപെഡൻസും അഡ്മിറ്റൻസും എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടിവരും നമ്മൾ ലൈൻ ലിങ്കും പറഞ്ഞിട്ടുണ്ട് അതിനാൽ നിങ്ങൾ ട്രാൻസ്മിഷൻ ലൈനിലൂടെ നീങ്ങുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ലോഡ് കണ്ടെത്തുക തുടർന്ന് നിങ്ങൾ കോൺസ്റ്റന്റായ VSWR സർക്കിൾ വരയ്ക്കുകയും ആ സർക്കിളിൽ ആവശ്യമായ ട്രാൻസ്മിഷൻ ലൈൻ ദൂരത്തിലൂടെ നീങ്ങുകയും ചെയ്താൽ ആ ഇംപെഡൻസിനുള്ളിൽ നിങ്ങളുടെ ഇൻപുട്ട് ഇംപെഡൻസായ ഒരു പോയിന്റിൽ നിങ്ങൾ എത്തിച്ചേരും തുടർന്ന് നിങ്ങളുടെ അഡ്മിറ്റൻസ് പരിവർത്തനം ചെയ്യേണ്ടതുണ്ട് ഉത്തരം റിവേഴ്സ് ചെയുകയും ചെയ്യുക അസൈൻമെന്റ് നമ്മൾ ചെയ്തതിന് സമാനമായിരിക്കും അത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു ഇതിലൂടെ നമ്മൾ ഒരു കാര്യം പൂർത്തിയാക്കുകയാണ് നിങ്ങൾക്ക് അറിയാവുന്ന ആദ്യത്തെ ടൂൾ സ്മിത്ത് ചാർട്ട് ആണെന്ന് കൂടാതെ ലബോറട്ടറിയിൽ ഇംപഡൻസ് കണ്ടെത്തുന്നതിന് സ്മിത്ത് ചാർട്ട് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന് നമ്മൾ ഉദാഹരണം നൽകിയിട്ടുണ്ട് ഇംപെഡൻസ് പൊരുത്തപ്പെടുത്തലിലും മറ്റുള്ളവ നെറ്റ്വർക്കുകളുടെ ഏത് ഡിസൈനിലും എങനെ ഉപയോഗികാം എന്ന് നമുക്ക് പിന്നീട് കാണാം എനിക്ക് ഡിസൈനും ആംപ്ലിഫയറും പഠിക്കണമെങ്കിൽ ആ ആംപ്ലിഫയർ സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സ്മിത്ത് ചാർട്ട് വളരെ സഹായകരമാണ് നിങ്ങൾ അത് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൽ നോയിസ് ഫിഗർ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സ്വീകാര്യമാണോ അല്ലയോ ഗൈൻ നിങ്ങൾ ആഗ്രഹിച്ചതോ അല്ലയോ ആ ആംപ്ലിഫയറിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഗൈൻ ലഭിക്കുന്നുണ്ടോ നിങ്ങൾ നൊയസ് മിനിമം ആക്കി നിർത്തുന്നുണ്ടോ എന്നെല്ലാം അറിയുന്നതിന് സ്മിത്ത് ചാർട്ട് ഉപയോഗികപ്രദമായിരിക്കും അതിനാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് എല്ലാ ഡിസൈനുകളിലും നിങ്ങൾക്ക് മനസ്സിലായ സ്മിത്ത് ചാർട്ട് ഉപയോഗികാൻ സാധിക്കും ഈ ഡിസൈനുകൾ പരീക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് സ്മിത്ത് ചാർട്ട് ഒരു ഗൈൻ വ്യക്തമാകുകയും ചെയ്യുമ്പോൾ എങ്ങനെ ആംപ്ലിഫയർ രൂപകൽപ്പന ചെയ്യാം ആ ആംപ്ലിഫയറിൽ നിന്ന് എനിക്ക് ലഭിക്കാൻ കഴിയുന്ന അടിസ്ഥാന ഗൈൻ എന്താണ് തന്നിരിക്കുന്ന ഇംപെഡൻസിന് കീഴിൽ ലോഡ് കണ്ടീഷൻ കണക്കിലെടുത്ത് അവിടെ നിന്നുള്ള പരമാവധി ഗൈനിന്നെ അടിസ്ഥാനമാക്കി നമുക്ക് എന്തെങ്കിലും നേടാൻ കഴിയുമോ എന്റെ നോയ്സ് ഫിഗർ മറികടകാതിരിക്കാൻ ഒരു നിർദ്ദിഷ്ട നോയ്സ് ഫിഗർ മൂല്യം രൂപപ്പെടുത്താമോ എന്നിങ്ങനെയെല്ലാം കുറഞ്ഞ ശബ്ദ ആംപ്ലിഫയർ ഡിസൈനുകൾക്ക് ആവശ്യമാണ് അതിനാൽ ഓസിലേഷൻസ് സാധ്യമായ ഈ സർക്യൂട്ട് എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും തുടർന്ന് നിങ്ങൾക്ക് ഓസിലേറ്റർ ഡിസൈനിനായി രൂപകൽപ്പന ചെയ്യാം അത് ഒരു ആക്റ്റീവ് ഡിവൈസിന്റെ രൂപകൽപ്പനയാണ് പാസ്സീവ് ഡിവൈസിന്റെ സ്മിത്ത് ചാർട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ സ്മിത്ത് ചാർട്ട് എടുക്കാം അതായത് ചില പരിവർത്തനത്തോടുകൂടിയ സ്റ്റാൻഡേർഡ് സ്മിത്ത് ചാർട്ട് ആണ് നിങ്ങൾക്ക് ഇത് ആക്റ്റീവ് ഉപകരണങ്ങൾക്കായി നിർമ്മിക്കാം നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും അത് മറ്റൊരു സാങ്കേതികതയാണ് എന്നാൽ ആ ഓസിലേറ്ററുകൾളിൽ അതിന്റെ സ്റ്റബിലിറ്റി എന്താണെന്ന് രൂപകൽപ്പന ചെയുന്നതിന് അതേ സ്മിത്ത് ചാർട്ട് അടിസ്ഥാനതത്വങ്ങൾ ആവശ്യമാണ് എന്താണ് അതിന്റെ സ്റ്റബിലിറ്റി ഏതൊക്കെ സോണുകൾ ഏത് ഇംപെഡൻസ് അവസ്ഥകൾക്ക് കിഴിലാണ് സ്റ്റബിലാവുന്നത് മുതലായവ നിങ്ങളുടെ സ്മിത്ത് ചാർട്ട് ആയിരിക്കും ചെയുന്നത് അതിനാൽ ഈ മുഴുവൻ മൊഡ്യൂൾ നമ്മൾ പൂർത്തിയാക്കി സ്മിത്ത് ചാർട്ടിൽ ഒരു ടൂൾ അവതരിപ്പിച്ചു ഇനി ദയവായി അസൈൻമെന്റുകളിലൂടെ കടന്നുപോകുക ആ അസൈൻമെന്റുകൾ പരിഹരിക്കാൻ ശ്രമിക്കുക അവ സമർപ്പിക്കുക നിങ്ങൾ ഈ അസൈൻമെന്റുകൾ ചെയ്യുകയാണെങ്കിൽ ഒരു RF എഞ്ചിനീയർ എന്ന നിലയിൽ സ്മിത്ത് ചാർട്ട് ടൂൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിച്ചത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും